ഡ്രെയിൻ ഫീഡ്ബാക്ക് ബയാസിങിന്റെ സാങ്കേതികത നമുക്കറിയാം പക്ഷേ ചെറിയ ഗെയിൻ സെൻസിറ്റിവിറ്റിയുള്ള ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ സാക്ഷാത്കരിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സ്മോൾ സിഗ്നൽ ചിത്രം ഡ്രെയിൻ ഫീഡ്ബാക്ക് ബയാസായി മാറ്റുകയും സർക്യൂട്ടുമായി വരികയുമാണ് ഇത് ഇൻക്രിമെന്റൽ സ്മോൾ സിഗ്നൽ ചിത്രത്തിലെ ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയർ പോലെ പ്രവർത്തിക്കുന്നു പക്ഷേ അതിന്റെ ബയാസിങ് ഡ്രെയിൻ ഫീഡ്ബാക്ക് അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇപ്പോൾ ഡ്രെയിൻ ഫീഡ്ബാക്ക് ബയസിന് ഈ ക്രമീകരണം ഉണ്ട് ആവശ്യമുള്ള ഡ്രെയിൻ കറന്റ് I0 ആ രീതിയിൽ ബന്ധിപ്പിക്കുകയും ഡ്രെയിൻ വോൾട്ടേജ് ഗേറ്റിലേക്ക് തിരികെ നൽകുകയും ചെയ്യുന്നു ഈ MOS ട്രാൻസിസ്റ്ററിനെ M1 എന്ന് വിളിക്കട്ടെ ഇത് VDD ആണ് അതായത് ശരിക്കും സപ്ലേ വോൾട്ടേജ് VDD ഈ അപ്പർ റെയിലിനും ഗ്രൌണ്ടിനും ഇടയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ചിലപ്പോൾ VDD എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്ന ലൈൻ കാണിക്കുന്നത് വളരെ സാധാരണമാണ് ഇതിനർത്ഥം ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ VDD മൂല്യമുള്ള ഒരു ബാറ്ററിയുണ്ടെന്നാണ് ഇപ്പോൾ കോമൺ സോഴ്സ് ആംപ്ലിഫയർ എന്താണ് എനിക്ക് ഒരു സിഗ്നൽ സോഴ്സ്ള്ള ഒരു സ്ഥലമാണ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ എനിക്ക് എന്റെ ട്രാൻസിസ്റ്റർ ഗേറ്റ് ഡ്രെയിൻ സോഴ്സ് എന്നിവയുണ്ട് ട്രാൻസിസ്റ്ററിനുള്ളിലെ കൺട്രോൾ സോഴ്സ് ആണ് gmVGS ഇവിടെ VGS ഗേറ്റ് സോഴ്സ് വോൾട്ടേജാണ് സോഴ്സ് ഗ്രൌണ്ട് ചെയ്യുകയും ലോഡ് ഡ്രെയിനും ഗ്രൌണ്ടിനും ഇടയിൽ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതാണ് കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ സാരം ഇപ്പോൾ തീർച്ചയായും നമുക്ക് അധിക ഘടകങ്ങൾ ഉണ്ടായിരിക്കാം ഒന്നാമതായി നമുക്ക് കപ്പാസിറ്ററുകൾ ഉണ്ടായിരിക്കാം അവ സിഗ്നലിലേക്ക് ബയാസിന്റെ ചില മൂല്യങ്ങൾ ചേർക്കുന്നതിന് ഉപയോഗപ്രദമാണ് സിഗ്നൽ ഒരു നിശ്ചിത ആവൃത്തിക്ക് മുകളിലാണെന്ന് കരുതുക കൂടാതെ ബയാസിന് ഉപയോഗപ്രദമായ മറ്റ് റെസിസ്റ്ററുകളും നമുക്ക് ഉണ്ടായിരിക്കാം നിങ്ങൾ പഴയ സർക്യൂട്ട് ഓർക്കുന്നുവെങ്കിൽ നമുക്ക് R1 സമാന്തരം R2 ഇവിടെ ഉണ്ടായിരുന്നു തുടർന്ന് നമുക്ക് അവിടെ ഡ്രെയിൻ ബയാസ് റെസിസ്റ്റർ RD ഉണ്ടായിരുന്നു ഇവ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് കൃത്യമായ ബയാസിങ് ക്രമീകരണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്നാൽ കറുത്ത നിറത്തിൽ ഞാൻ കാണിച്ചിരിക്കുന്നതാണ് കോമൺ സോഴ്സ് ആംപ്ലിഫയർ അതിനാൽ എങ്ങനെയെങ്കിലും ഈ സിഗ്നൽ Vs അല്ലെങ്കിൽ അതിൽ ഭൂരിഭാഗവും ഈ ഗേറ്റ് സോഴ്സിനുടനീളം ദൃശ്യമാകുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് ഒരു ലോഡ് റെസിസ്റ്റൻസ് RL ഉണ്ട് ഈ RL ഡ്രെയിൻ സോഴ്സിനുടനീളം ദൃശ്യമാകണം ഇപ്പോൾ തീർച്ചയായും ഇത് ബയാസിനെ ശല്യപ്പെടുത്താതെ സംഭവിക്കണം അതിനാൽ ഇത് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഇതിന് ആവശ്യമായ എല്ലാ തത്വങ്ങളും നമുക്കറിയാം ബയാസിലേക്ക് സിഗ്നൽ എങ്ങനെ ചേർക്കാമെന്ന് നമുക്കറിയാം പതിവുപോലെ സിഗ്നൽ 0 എന്ന ആവൃത്തിയേക്കാൾ വലുതോ തുല്യമോ ആണെന്ന് നമ്മൾ അനുമാനിക്കും അതിനാൽ നമുക്ക് dc സിഗ്നലുകൾ ഇല്ല അതിനാൽ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ac കപ്ലിംഗ് ടെക്നിക്കുകൾ ഉപയോഗിക്കാം സിഗ്നൽ കപ്പിൾ ആക്കാൻ നമുക്ക് ഒരു കപ്പാസിറ്റർ ഉപയോഗിക്കാം കൂടാതെ കപ്പാസിറ്ററിന്റെ മൂല്യം എങ്ങനെ കണക്കാക്കാമെന്ന് നമുക്കറിയാം അതിനാൽ ഇത് ഒരു കോമൺ സോഴ്സ് ആംപ്ലിഫയറാക്കി മാറ്റാൻ ശ്രമിക്കാം അതിനാൽ നമുക്ക് അത് ചെയ്യാം പതിവുപോലെ ഘട്ടങ്ങളിലൂടെ സ്വയം ചിന്തിക്കാനും അത് എങ്ങനെ ചെയ്യണമെന്ന് കൃത്യമായി കണ്ടെത്താനും ഞാൻ നിങ്ങളെ പ്രേരിപ്പിക്കും ഇത് രസകരമാണ് ഇങ്ങനെയാണ് നിങ്ങൾ സർക്യൂട്ടുകൾ കണ്ടുപിടിക്കുന്നത് നമ്മൾ എത്താൻ പോകുന്ന ഈ സർക്യൂട്ട് ഇതിനകം തന്നെ നമുക്ക് അറിയാം പിന്നീട് നിങ്ങൾ കൂടുതൽ പരിചയസമ്പന്നരാകുമ്പോൾ നിങ്ങൾക്ക് പുതിയ സർക്യൂട്ടുകൾ കൊണ്ടുവരാൻ കഴിയും അതും ഇത് പോലെ തന്നെ ലോജിക്കൽ യുക്തിയുടെ ഒരു ശൃംഖലയാണ് അതിനാൽ ചില അടിസ്ഥാന കാര്യങ്ങൾ നിങ്ങൾക്കറിയാം കൂടുതൽ സങ്കീർണ്ണമായ സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നതിന് നിങ്ങൾ ആ ബിൽഡിംഗ് ബ്ലോക്കുകൾ ഒരുമിച്ച് ചേർക്കുന്നു അതിനാൽ നമുക്ക് ബയാസിങ് ചിത്രവും ഓപ്പറേറ്റിംഗ് പോയിന്റിന്റെ സജ്ജീകരണവും ഉണ്ട് ഞാൻ ഇത് ഇതുപോലെ കാണിക്കുന്നത് തുടരും ഈ പോയിന്റിനും ഗ്രൌണ്ടിനും ഇടയിൽ ഒരു ബാറ്ററിയുണ്ടെന്ന് ദയവായി മനസിലാക്കുക ഇത് M1 അതിനാൽ ഇവിടെ അനിവാര്യമായ സവിശേഷത ബയാസിങ്ങിനായി ഗേറ്റിലേക്ക് ഡ്രെയിൻ ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഈ സിഗ്നൽ ചിത്രത്തിൽ അതിന്റെ സ്മോൾ സിഗ്നൽ ചിത്രത്തിനുപകരം ഞാൻ ഒരു MOS ട്രാൻസിസ്റ്റർ കാണിക്കാം എനിക്കും അത് കാണിക്കാം രണ്ടും കാണിക്കട്ടെ മറ്റുള്ളവ പിന്നീട് സൌകര്യത്തിന് അനുസരിച്ച് കാണിക്കാം ഞാൻ ഒന്നോ മറ്റോ മാത്രം കാണിക്കും ഇതാണ് സ്മോൾ സിഗ്നൽ ചിത്രം എന്താണ് സംഭവിക്കേണ്ടത് ഈ സോഴ്സ് ഈ സ്മോൾ സിഗ്നൽ ചിത്രത്തിൽ ഗ്രൌണ്ട് ചെയ്തിരിക്കണം കൂടാതെ സോഴ്സ് Vs ഇവിടെ ദൃശ്യമാകണം ഇതാണ് ഗേറ്റ് ഇതാണ് ഡ്രെയിൻ ഇതാണ് സോഴ്സ് RL അവിടെ പ്രത്യക്ഷപ്പെടണം തീർച്ചയായും ട്രാൻസിസ്റ്റർ സാച്ചുറേഷൻ തുടരണം അത് ഈ ബയാസിങ് ക്രമീകരണങ്ങൾ ഇത് ഉറപ്പുനൽകുന്നു ഈ കേസിൽ VDS VGS നു തുല്യമാണ് അത് ത്രഷോൾഡ് വോൾട്ടേജ് VT പോസിറ്റീവ് ആകുന്നിടത്തോളം തീർച്ചയായും VGS minus VT യേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ ഞാൻ അത് MOS ചിഹ്നം ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ Vs ഉം Rs ഉം ഗേറ്റ് സോഴ്സിന് കുറുകേ വരുന്നു RL ഇവിടെ വരുന്നു ഇത് സ്മോൾ സിഗ്നൽ ഇൻക്രിമെന്റൽ ചിത്രത്തിലുണ്ട് ഇപ്പോൾ ആദ്യം നമുക്ക് ലോഡ് റെസിസ്റ്റർ ബന്ധിപ്പിക്കാൻ ശ്രമിക്കാം ലോഡ് റെസിസ്റ്റർ ഡ്രെയിനിനും ഗ്രൌണ്ടിനും ഇടയിൽ പ്രത്യക്ഷപ്പെടണം അല്ലെങ്കിൽ അത് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിച്ചിരിക്കണം അതിനാൽ ലോഡ് റെസിസ്റ്റർ RL എടുക്കാം അത് ഗ്രൌണ്ട് ചെയ്തിരിക്കാം യഥാർത്ഥ കോമൺ സോഴ്സ് ആംപ്ലിഫയർ ചർച്ച ചെയ്യുന്നതിനിടെ ഇത് നേരത്തെ വിശദീകരിച്ചു RL എന്നത് ഇനിപ്പറയുന്നവയെ പ്രതിനിധാനം ചെയ്യുന്നു അത് ഒരു ഫിസിക്കൽ റെസിസ്റ്ററായിരിക്കില്ല അതിനാൽ അതിന്റെ ഒരു വശം ഗ്രൌണ്ട് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ എന്തുചെയ്യും ഇത് ഡ്രെയിനിലേക്ക് കണക്റ്റുചെയ്യേണ്ടതുണ്ട് അതിനാൽ ആദ്യത്തെ ശ്രമം അത് ഡ്രെയിനിലേക്ക് ബന്ധിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഇതിന് എന്ത് പ്രശ്നങ്ങളുണ്ടാകുമെന്ന് ചിന്തിക്കുക ഉടനടി വ്യക്തമാകുന്ന ഒരു പ്രശ്നം ഈ കറന്റ് I0 ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിലൂടെ ഒഴുകാൻ നമ്മൾ ആഗ്രഹിച്ചു ഡ്രെയിൻ കറന്റ് I0 നു തുല്യമായിരിക്കണം എന്നാൽ ഈ കേസിൽ എനിക്ക് ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജ് VDS എന്ന ഓപ്പറേറ്റിങ് പോയിന്റ് വാല്യൂ ഉണ്ട് അത് RL നു കുറുകേ ദൃശ്യമാകുന്നു അതിനാൽ VDS by RL അതിലൂടെ ഒഴുകുന്നു അതിനാൽ സ്റ്റേഡി സ്റ്റേറ്റിലെ കറൻറ് ഈ ഡ്രെയിൻ കറന്റ് I0ന് തുല്യമാകില്ല പക്ഷേ ഇത് I0 മൈനസ് VDS ബൈ RL നു തുല്യമായിരിക്കും അതിനാൽ ഇത് അനാവശ്യമായ ഒരു സങ്കീർണതയാണ് ഈ RL ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് പോയിൻറ് കറന്റ് വരയ്ക്കാൻ നിങ്ങൾക്ക് ആവശ്യമില്ല ഇത് പൂർണ്ണമായും ഉപയോഗശൂന്യമാണ് അത് ചെയ്യുന്നതിൽ അർത്ഥമില്ല അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ അതിനെ വ്യത്യസ്തമായി ബന്ധിപ്പിക്കണം നമുക്ക് ഇത് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയില്ല അതിനാൽ എങ്ങനെയെങ്കിലും സിഗ്നലുകൾക്ക് മാത്രമേ ഇത് ഇതിന് കുറുകേ ദൃശ്യമാകേണ്ടതുള്ളു ഈ സിഗ്നൽ 0 എന്ന ഒരു നിശ്ചിത ആവൃത്തിമുകളിലാണെങ്കിൽ അത് എളുപ്പമാണ് അതിനാൽ ഇതിനെ ac കപ്ലിംഗ് എന്ന് വിളിക്കുന്നു കൂടാതെ നമ്മൾ RL ട്രാൻസിസ്റ്ററുമായി ബന്ധിപ്പിക്കുന്ന രീതി നമ്മുടെ യഥാർത്ഥ കോമൺ സോഴ്സ് ആംപ്ലിഫയറിന് തുല്യമാണ് നമ്മൾ അതിനെ ഒരു കപ്പാസിറ്ററിലൂടെ ബന്ധിപ്പിക്കുന്നു അതിനാൽ കപ്പാസിറ്റൻസ് വളരെ വലുതാണെങ്കിൽ സിഗ്നൽ വോൾട്ടേജ് VDS എല്ലാം RL നു കുറുകേ ദൃശ്യമാകും പക്ഷേ ഇവിടെയുള്ള dc തടഞ്ഞിരിക്കുന്നു അതിനാൽ ചിലപ്പോൾ ഇതിനെ ഡിസി ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്നും വിളിക്കുന്നു ഇവിടെ ഓപ്പറേറ്റിങ് പോയിന്റ് VGS ആയിരിക്കും VGS എന്തു തന്നെ ആയാലും Vt2kn I0 നമ്മൾ നേരത്തെ വിലയിരുത്തിയതുപോലെ ഇത് നല്കുന്നു ഇവിടെ ഓപ്പറേറ്റിംഗ് പോയിന്റ് വോൾട്ടേജ് പൂജ്യമാണ് വ്യത്യാസം കപ്പാസിറ്ററിലൂടെ പോകും അതിനാൽ ഇതിനെ എന്റെ യഥാർത്ഥ നൊട്ടേഷൻ പിന്തുടർന്ന് C2 എന്ന് വിളിക്കാം ഇപ്പോൾ ഗേറ്റിനെ ഞാൻ എന്തുചെയ്യണം ഗേറ്റ് വോൾട്ടേജ് dc ബയാസിംഗിനായി ഡ്രെയിനിലേക്ക് കണക്റ്റുചെയ്യണം പക്ഷേ ഇത് acയ്ക്ക് വേണ്ടി Vs Rs എന്നിവയുടെ സോഴ്സ് സംയോജനത്തിലേക്ക് ബന്ധിപ്പിക്കണം dcയ്ക്ക് വേണ്ടി അത് ഡ്രെയിനിലേക്ക് പോകണം ac ക്ക് അത് അടിസ്ഥാനപരമായി സിഗ്നൽ സോഴ്സായ Vs Rs ലേക്ക് പോകണം നമ്മൾ ഇത് എങ്ങനെ ക്രമീകരിക്കും ഇത് വീണ്ടും നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു നിശ്ചിത ac സിഗ്നൽ ഒരു നിശ്ചിത dc സിഗ്നൽ സോഴ്സിലേക്ക് എങ്ങനെ ചേർക്കാമെന്ന് നമുക്കറിയാം അതായത് ഒരു ടെർമിനൽ dcക്കായി ടെർമിനൽ A യിലും acക്ക് വേണ്ടി ടെർമിനൽ B യിലും നമുക്ക് ബന്ധിപ്പിക്കണം അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം നമ്മൾ ഇതുതന്നെ നേരത്തെ ചെയ്തതിരുന്നു കോമൺ സോഴ്സ് ആംപ്ലിഫയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഗേറ്റ് ഓർമിക്കുകയാണെങ്കിൽ ഡ്രെയിൻ വശത്തിന്റെ പൂർണ്ണ ചിത്രം ഞാൻ കാണിക്കുന്നില്ല പക്ഷേ ഗേറ്റ് നമുക്ക് Vdc Vs ലഭിക്കണം അതിനാൽ നമ്മൾ എന്താണ് ചെയ്തത് ക്യൂസെന്റ് മൂല്യം എന്തായാലും നമുക്ക് ഒരു സിഗ്നൽ സോഴ്സ് Vs ഉണ്ട് ഒപ്പം dc സോഴ്സ് VGS0 ഉണ്ട് VGS എന്ന ഓപ്പറേറ്റിങ് പോയിന്റ് മൂല്യം എന്താണ് നമ്മൾ ഇത് എങ്ങനെ ചെയ്തു അതിനാൽ നമ്മൾ VGS0 റെസിസ്റ്ററുകളിലൂടെയും സിഗ്നൽ സോഴ്സ് ഒരു കപ്പാസിറ്റർ വഴിയും ബന്ധിപ്പിച്ചു ഇപ്പോൾ തീർച്ചയായും നമ്മൾ കൂടുതൽ നിബന്ധനകൾ പാലിക്കേണ്ടതുണ്ട് ഈ Rx Rs നേക്കാൾ കൂടുതലായിരിക്കണം അതിനാൽ എല്ലാ Vs ഇവിടെ ദൃശ്യമാകും C1 ≫10Rs Rx ആയിരിക്കും അതിനാൽ ഇത് അനിവാര്യമായ ആശയമായിരുന്നു ഇപ്പോൾ തീർച്ചയായും കോമൺ സോഴ്സ് ആംപ്ലിഫയറിൽ നമുക്ക് ഒരു പ്രത്യേക സോഴ്സ് VGS0 ഇല്ലായിരുന്നു ഇത് സപ്ലൈ വോൾട്ടേജ് VDD നൽകുന്ന ഒരു വോൾട്ടേജ് ഡിവൈഡറിൽ നിന്നാണ് കണ്ടുപിടിച്ചത് എന്നാൽ ഇപ്പോൾ ആശയം സമാനമാണ് ഗേറ്റ് acക്ക് വേണ്ടി എന്തെങ്കിലിലും dcക്ക് വേണ്ടി മറ്റെന്തെങ്കിലും ബന്ധിപ്പിക്കണം അതിനാൽ നമ്മൾ ചെയ്യുന്നത് ഇനിപ്പറയുന്നവയാണ് ഇത് ഇവിടെ ഭിന്നമായിരിക്കുന്നു ഈ പോയിന്റ് dc ക്കായി ഡ്രെയിനിലേക്ക് ബന്ധിപ്പിക്കണം ഞാൻ ഒരു റെസിസ്റ്ററിലൂടെ ബന്ധിപ്പിച്ചു അതിനെ RG എന്ന് വിളിക്കാം അതേസമയം acക്കായി സിഗ്നൽ സോഴ്സ്മായി നിങ്ങൾ ബന്ധിപ്പിച്ചിരിക്കണം അതിനാൽ ഞാൻ അതിനെ ഒരു കപ്പാസിറ്റർ C1 വഴി സിഗ്നൽ സോഴ്സിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ ഈ C1 എന്തിനെക്കാളും വലുതാണെന്നും നമുക്ക് ഉറപ്പാക്കേണ്ടതുണ്ട് നമുക്ക് RG ഉണ്ട് അതിന്റെ ഫലവും നാം കണ്ടെത്തണം അതിനാൽ സിഗ്നൽ സോഴ്സിനെ ഗേറ്റ് സോഴ്സ്മായി ബന്ധിപ്പിക്കുന്നതിനും ലോഡ് RL ഡ്രെയിൻ സോഴ്സ്മായി ബന്ധിപ്പിക്കുന്നതിനും ac കപ്ലിംഗിന്റെ തത്വം ഉപയോഗിക്കുകയാണ് നമ്മൾ ചെയ്തത് അതിനാൽ ലോജിക് വളരെ വ്യക്തമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ദയവായി പ്രഭാഷണം വീണ്ടും പ്ലേ ചെയ്ത് ലോജിക് ഒരിക്കൽ കൂടി മനസിലാക്കുക ഇതിന്റെ ഓരോ ഘട്ടത്തിനും പിന്നിലെ ലോജിക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനമാണ് അതിനാൽ ഡ്രെയിൻ ഫീഡ്ബാക്ക് ഉപയോഗിക്കുന്ന കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇതാണ് പൂർണ്ണമായ ചിത്രം ഞാൻ ഇവിടെ കാണിക്കാം അതിനാൽ നമുക്ക് ഒരു കറൻറ് സോഴ്സ് I0 ഉണ്ട് ഗേറ്റിലേക്കുള്ള ഫീഡ്ബാക്ക് RG വഴിയാണ് നൽകുന്നത് അത് കുഴപ്പമില്ല കാരണം ഗേറ്റിലേക്ക് dc ഒഴുകുന്നില്ല അതിനാൽ RG യിലുടനീളം dc വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകില്ല നേരത്തെ നമ്മൾ ബയാസിങ് ക്രമീകരണവുമായി വന്നപ്പോൾ നമ്മൾ ഡ്രെയിൻ ഗേറ്റിലേക്ക് നേരിട്ട് ബന്ധിപ്പിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ഒരു RG വഴി ബന്ധിപ്പിച്ചു പക്ഷേ അത് വ്യത്യാസമൊന്നും വരുത്തുന്നില്ല കാരണം ഗേറ്റിലൂടെ dc ഒഴുകില്ല സിഗ്നൽ സോഴ്സ് ഗേറ്റ് സോഴ്സ്മായി C1 വഴി ബന്ധിപ്പിച്ചിരിക്കുന്നു ലോഡ് റെസിസ്റ്റൻസ് RL C2 വഴി ഡ്രെയിൻ സോഴ്സ്മായി ബന്ധിപ്പിച്ചിരിക്കുന്നു അതിനാൽ ഇതാണ് ടോപ്പോളജി ഇതിലേക്ക് നയിക്കുന്ന എല്ലാ ലോജിക്കൽ ഘട്ടങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇപ്പോൾ നമുക്ക് തീർച്ചയായും നമ്മുടെ സർക്യൂട്ട് വിശകലന കഴിവുകൾ ഉപയോഗിച്ച് ഇത് വിശകലനം ചെയ്യുകയും എല്ലാറ്റിന്റെയും ഫലം വിശകലനം ചെയ്യുകയും വേണം അതിനാൽ C1 C2 എന്നിവയിലെ കൺസ്ട്രെയിൻറ്സ് മുമ്പത്തെപ്പോലെ തന്നെ നിർണ്ണയിക്കേണ്ടതുണ്ട് കൂടാതെ RG യുടെ പ്രഭാവം നമ്മൾ വിശകലനം ചെയ്യണം കാരണം RG ബേസിക് കോമൺ സോഴ്സ് ആംപ്ലിഫയറിലെ ഘടകമല്ല അതിനാൽ നിങ്ങൾ ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ബേസിക് കോമൺ സോഴ്സ് ആംപ്ലിഫയർ ഇതിന് ട്രാൻസിസ്റ്റർ സിഗ്നൽ സോഴ്സ് ലോഡ് എന്നിവയുണ്ട് അത്രയേയുള്ളൂ RG അധികമായ ഒന്നാണ് ഇത് യഥാർത്ഥ കോമൺ സോഴ്സ് ആംപ്ലിഫയർ ടോപ്പോളജിയിൽ ബയാസ് റെസിസ്റ്ററിന് സമാനമാണ് നമുക്ക് R1 R2 എന്നിവ ഗേറ്റ് വശത്ത് ഉണ്ടായിരുന്നു കൂടാതെ ഡ്രെയിൻ ബയാസ് റെസിസ്റ്റർ RD അതിന്റെ ഫലം നമ്മൾ വിശകലനം ചെയ്തു അതിനാൽ എന്ത് സംഭവിക്കും അതിനാൽ സമാനമായി നമ്മൾ ഇവിടെയും ചെയ്യേണ്ടതുണ്ട് RGയുടെ പ്രഭാവം കണ്ടെത്തുകയും കൂടതെ ഇത് കോമൺ സോഴ്സ് ആംപ്ലിഫയറിനെ കാര്യമായി അല്ലെങ്കിൽ പ്രതികൂലമായി ബാധിക്കാത്ത തരത്തിൽ നല്ല മൂല്യം എന്താണെന്ന് കാണുകയും വേണം